കറന്റ് മിറർ വരയ്ക്കുമ്പോൾ ഡ്രെയിനേജ് വോൾട്ടേജ് ഗേറ്റിലേക്ക് തിരികെ നൽകുന്ന അടിസ്ഥാന ഡ്രെയിൻ ഫീഡ്ബാക്ക് ഘടന നമ്മൾ കണ്ടു ഇപ്പോൾ ഈ ഘടന പലപ്പോഴും സംഭവിക്കാറുണ്ട് അതിനാൽ ഇത് പഠിക്കാൻ കുറച്ച് സമയം ചെലവഴിക്കാം ഇപ്പോൾ MOS ട്രാൻസിസ്റ്ററിന് മൂന്ന് ടെർമിനലുകൾ ഉണ്ട് ഈ കണക്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് രണ്ട് ടെർമിനൽ ഘടകമായി ചിന്തിക്കാം അതിനാൽ എനിക്ക് ഈ MOS ട്രാൻസിസ്റ്റർ ഒരു ബോക്സിൽ സ്ഥാപിച്ച് രണ്ട് ടെർമിനലുകൾ മാത്രമേ പുറത്തെടുക്കാൻ കഴിയൂ കൂടാതെ ഓരോ ടെർമിനലുകൾ ഡ്രെയിനും ഗേറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതിനെ രണ്ട് ടെർമിനൽ ഘടകമായി ഞങ്ങൾ കരുതുന്നുവെങ്കിൽ ത്രെഷോൾഡ് വോൾട്ടേജ് പോസിറ്റീവ് ആണെന്ന പതിവ് അനുമാനങ്ങളും നടത്താം അതിനാൽ ഈ ഘടന ഒന്നുകിൽ സാച്ചുറേഷൻ അല്ലെങ്കിൽ കട്ട് ഓഫ് മേഖലയിലായിരിക്കും അത് ട്രയോഡ് മേഖലയിലായിരിക്കരുത് കാരണം അത് ട്രയോഡ് അല്ലെങ്കിൽ ലീനിയർ മേഖല ആയിരിക്കണമെങ്കിൽ VDS എന്നത് VGS VT യേക്കാൾ കുറവായിരിക്കണം പക്ഷേ ഞങ്ങൾക്ക് VDS VGS ഉണ്ട് അതിനാൽ പോസിറ്റീവ് ത്രെഷോൾഡ് വോൾട്ടേജ് VT ക്ക് ഇത് സാധ്യമല്ല ഇനി നമുക്ക് ഇതിൻറെ I V സവിശേഷതകൾ പ്ലോട്ട് ചെയ്യാം അതിനെ രണ്ട് ടെർമിനൽ ഘടകമായി ചിന്തിക്കുന്നു ഞങ്ങൾക്ക് വോൾട്ടേജ് V ഉണ്ട് കറന്റ് I യും എന്താണ് സംഭവിക്കുന്നത് ഞാൻ I V സ്വഭാവസവിശേഷതകൾ പ്ലോട്ട് ചെയ്താൽ ഞാൻ അത് V 0 നെ പ്ലോട്ട് ചെയ്യുകയുള്ളൂ കാരണം വോൾട്ടേജുകൾ പൂജ്യത്തേക്കാൾ വലുതാകുമ്പോൾ മാത്രമേ ഞങ്ങളുടെ MOS ട്രാൻസിസ്റ്ററിൻറെ മോഡൽ സാധുതയുള്ളൂ അതിനാൽ നമുക്ക് 1 2 3 4 V എന്ന് പറയാം ഇപ്പോൾ അതേ ട്രാൻസിസ്റ്റർ ഞാൻ പരിഗണിക്കും അവിടെ nCox എന്നത് 100 µA V2 ഉം VT എന്നത് 1 V ഉം ആണ് അതിനാൽ അത് വ്യക്തമാണ് ഈ വോൾട്ടേജ് V ഒരു വോൾട്ടിനേക്കാൾ കുറവാണെങ്കിൽ അതിൽ വൈദ്യുതി ഒഴുകുന്നില്ല കാരണം VGS ഒരു വോൾട്ടിനേക്കാൾ ചെറുതായതിനാൽ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് മേഖലയിലായിരിക്കും അതിനപ്പുറം ഇത് സാച്ചുറേഷൻ ഉള്ളതിനാൽ ഇത് സ്ക്വയർ ലോ ഇക്വേഷൻ പിന്തുടരുന്നു അത് I nCox2 എന്ന് പറയുന്നു ഈ സാഹചര്യത്തിൽ ഈ കറന്റ് ID അടിസ്ഥാനപരമായി ഈ കറന്റ് I ആണ് VGS ഈ V ആയിരിക്കും അതിനാൽ ഇത് സ്ക്വെർ ലോ സവിശേഷതകൾ പിന്തുടരുന്നു അതിനാൽ ഇത് VGS ആണ് അത് 50 µA ആയിരിക്കും അതിനാൽ ഇത് µA ൽ എന്ന് പറയട്ടെ 3 V ന് ഇത് 200 µA ആയിരിക്കും 4 V ന് ഇത് 450 µA എന്നിങ്ങനെ അതിനാൽ ഇവ ട്രാൻസിസ്റ്ററിൻറെ I V സവിശേഷതകളാണ് ഇത് നിങ്ങൾ ഓർമിക്കുന്നത് ഡയോഡിനെ അനുസ്മരിപ്പിക്കും ഡയോഡിലും ചില സ്വഭാവസവിശേഷതകൾ ഉണ്ടായിരുന്നു അവിടെ ഒരു ഘട്ടത്തിൽ വരെ വളരെ ചെറിയ കറന്റ് ഉണ്ടായിരുന്നു അതിനുശേഷം കറന്റ് വർദ്ധിക്കുന്നു ഇപ്പോൾ ഡയോഡിൻറെ കാര്യത്തിൽ അത് ഗണ്യമായി വർദ്ധിക്കുന്നു എന്നാൽ ഇവിടെ ഇത് ഒരു സ്ക്വയർ ലോ മാത്രമേ വർദ്ധിപ്പിക്കൂ പക്ഷേ ഇത് നമുക്ക് ചിന്തിക്കാം ഡയോഡ് ആയ രണ്ട് ടെർമിനൽ മൂലകം അതിനാൽ ഈ കണക്ഷനെ ഡയോഡ് കണക്ഷൻ അല്ലെങ്കിൽ ഡ്രെയിനും ഗേറ്റും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ട്രാൻസിസ്റ്ററിനെ ഡയോഡ് കണക്റ്റുചെയ്ത ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് പലയിടത്തും കണ്ടുമുട്ടുന്നു നിങ്ങൾക്ക് ഈ സവിശേഷതകൾ കിട്ടും ഇത് ഒരു നിശ്ചിത വോൾട്ടേജ് ഡ്രോപ്പ് നേടാൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ ചില ബയാസ് വോൾട്ടേജുകൾ നേടുന്നതിന് ഇത് ഉപയോഗിക്കാം ഇതിൻറെ വർദ്ധനവ് ചിത്രം ഇതിനകം തന്നെ നമുക്ക് പരിചിതമാണ് കറന്റ് മിറർ ബയസ് ഉപയോഗിച്ച് കോമൺ സോഴ്സ് ആംപ്ലിഫയർ വിശകലനം ചെയ്യുന്നതിനിടയിൽ ഇത് കണക്കാക്കിയതാണ് അതിനാൽ ഇതിന് ചില ഓപ്പറേറ്റിംഗ് പോയിന്റ് I V എന്നിവ ഉണ്ടാകും ആ ഓപ്പറേറ്റിംഗ് പോയിന്റിനു ചുറ്റും നമുക്ക് എന്ത് ലഭിക്കും MOS ട്രാൻസിസ്റ്ററിൻറെ ചെറിയ സിഗ്നൽ മോഡലിൻറെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇത് എഴുതുകയാണെങ്കിൽ ഇതാണ് ഗേറ്റ് ഡ്രെയിൻ സോഴ്സ് ഇതാണ് VGS ഇത് gmVGS ആണ് ഗേറ്റ് ഡ്രെയിനിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇപ്പോൾ ഈ രണ്ട് ടെർമിനലുകൾക്കിടയിലും ഗേറ്റ് സോഴ്സ് അല്ലെങ്കിൽ ഡ്രെയിൻ സോഴ്സ് ഒന്നുതന്നെയാണ് ഇത് 1 gm മൂല്യത്തിൻറെ റെസിസ്റ്ററിന് തുല്യമാണ് ഇത് നമുക്ക് ഇതിനകം അറിയാം ഞങ്ങൾ അത് വിശകലനം ചെയ്തു ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു ടെസ്റ്റ് വോൾട്ടേജ് പ്രയോഗിക്കുകയും എന്താണ് ഒഴുകുന്നതെന്നും കാണുക കൂടാതെ അനുപാതം എടുക്കുക അപ്പോൾ നിങ്ങൾ ഇത് കണ്ടെത്തും അതിനാൽ ഡയോഡ് കണക്റ്റുചെയ്ത ട്രാൻസിസ്റ്ററിന് ഇൻക്രെമെന്റൽ ഇക്വിവലെന്റ് ഉണ്ട് ഇത് ഒരു റെസിസ്റ്റർ ആണ് ഇതിൻറെ മൂല്യം 1gm ആണ് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ gm വിലയിരുത്തേണ്ടതുണ്ട് സാച്ചുറേഷൻ മേഖലയിലെ ട്രാൻസിസ്റ്ററിൻറെ ഔട്ട്പുട്ട് കണ്ടക്ടൻസ് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത് ഇത് ഇതിന് സമാന്തരമായി ദൃശ്യമാകുന്നു ഇതിന് ഒരു റെസിസ്റ്റൻസ് rds ഉണ്ടാകും ഇത് കണ്ടക്ടൻസ് gds ന് വിപരീതമാണ് എല്ലാം 1gm gds മൂല്യത്തിൻറെ ഒരൊറ്റ റെസിസ്റ്ററിന് തുല്യമായിരിക്കും കണ്ടക്ടൻസ് സമാന്തരമായതിനാൽ ആകെ തുക കണ്ടാൽ മതി ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ധാരാളം സാഹചര്യങ്ങളിൽ ഡയോഡ് കണക്റ്റുചെയ്ത ട്രാൻസിസ്റ്ററിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നുവെന്നത് ഓർക്കുക ഇത് വലിയ സിഗ്നലും ചെറിയ സിഗ്നൽ സ്വഭാവവുമാണെന്ന് അറിയുന്നതിന് ഉപയോഗപ്രദമാണ്